ഒരു കാന്തിക മണ്ഡലത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം II പരിഹരിച്ച ഉദാഹരണങ്ങൾ ഒരു കാന്തികക്ഷേത്രത്തിലെ ഊർജ്ജ സാന്ദ്രത 1 ഓവർ 2 mu 0 B സ്ക്വയറാകുമെന്ന് നമ്മൾ പഠിച്ചു ചില ഉദാഹരണങ്ങൾ കാണാൻ നമുക്ക് ഇപ്പോൾ ഇത് ഉപയോഗിക്കാം അതിനാൽ ഉദാഹരണത്തിന് ഒരു യൂണിറ്റ് ദൈർഘ്യത്തിന് n തിരിവുകളുള്ള ഒരു നീണ്ട സോളിനോയിഡ് ഞാൻ എടുക്കുന്നു അത് കറന്റ് I വഹിക്കുന്നു അതിനാൽ ഇവിടെ ഒരു കാന്തികക്ഷേത്രം സ്ഥാപിക്കുന്നു അപ്പോൾ ഊർജ്ജ സാന്ദ്രത 1 ഓവർ 2 mu 0 B സ്ക്വയറാകാൻ പോകുന്നു B mu 0 n I ആയതുകൊണ്ട് ഊർജ്ജ സാന്ദ്രത mu 0 n സ്ക്വയർ I സ്ക്വയർ by 2 ആയിരിക്കും ഊർജ്ജ സാന്ദ്രത120B21200nI20n2I22 ഒരു യൂണിറ്റ് ദൈർഘ്യമുള്ള ഊർജ്ജത്തിന് ഇത് അർത്ഥമാക്കുന്നത് എന്താണെന്നാൽ ക്രോസ് സെക്ഷന്റെ വിസ്തീർണ്ണമാണ് നമുക്ക് അതിനെ a തവണ യൂണിറ്റ് ദൈർഘ്യം എന്ന് വിളിക്കാം അത് വോളിയം ആകുന്നു അതിനാൽ ഒരു യൂണിറ്റ് ദൈർഘ്യത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം ക്രോസ് സെക്ഷന്റെ വിസ്തീർണ്ണം a തവണ mu 0 n സ്ക്വയർ I സ്ക്വയർ by 2 ആകുന്നു അതിനാൽ ഒരു യൂണിറ്റ് ദൈർഘ്യത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം a mu 0 n സ്ക്വയർ I സ്ക്വയർ by 2 എന്നത് 1 by 2 L I സ്ക്വയറിന് തുല്യമായിരിക്കണം ഇത് L എന്നാൽ a mu 0 n സ്ക്വയറിന് തുല്യമാണ് ഇത് യൂണിറ്റ് ദൈർഘ്യത്തിനുള്ള ഇൻഡക്റ്റൻസ് ആണ് a0n2I2212LI2അഥവാ La0n2 ഒരു യൂണിറ്റ് ദൈർഘ്യത്തിൽ ഒരു സോളിനോയിഡിനായി ഉള്ള ഇൻഡക്റ്റൻസ് ഈ മൊത്തം തിരിവുകളിലൂടെ കടന്നുപോകുന്ന ഫൈ അഥവാ ആകെ ഫ്ലക്സ് ഹരിക്കണം I ആയിരിക്കും ഇപ്പോൾ അത് n തവണ വിസ്തീർണ്ണം a ഉൾകൊള്ളിക്കുന്ന n തിരിവുകളുള്ള mu 0 I by I ആയിരിക്കും അതായത് a mu 0 n സ്ക്വയർ അങ്ങനെ ഇവ രണ്ടും ഒന്നാകുന്നു ഇൻഡക്റ്റൻസ്In a n 0IIa0n2 അതിനാൽ b യുടെ ഊർജ്ജ സാന്ദ്രത ഉപയോഗിച്ച് കണക്കുകൂട്ടുന്ന ഊർജ്ജം എങ്ങനെയാണ് ഇൻഡക്റ്റൻസ് രീതിയിലൂടെ ഇൻഡക്റ്റൻസുമായി ബന്ധപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ട ഒരു ഉദാഹരണമാണ് നമ്മൾക്ക് ആശ്ചര്യം ആകേണ്ടതില്ല കാരണം ഇൻഡക്ടൻസ് ഫോർമുലയിൽ നിന്ന് തുടങ്ങുന്ന ഫോർമുലയാണ് നമുക്ക് ലഭിച്ചത് അടുത്ത ഉദാഹരണം ഒരു ഷെല്ലിൽ അടച്ച ഒരു കറന്റ് വഹിക്കുന്ന വയർ ഞാൻ എടുക്കുന്നു അതിലൂടെ കറന്റ് തിരികെ വരുന്നു ഗണിതശാസ്ത്രപരമായി ലളിതമാക്കാൻ ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ വയറിന് ഒരു ആരം a ഉള്ളതും അകത്ത് പൊള്ളയായതുമാണ് അതിനാൽ വൈദ്യുതധാര വയറിന്റെ ഉപരിതലത്തിൽ മാത്രം ഒഴുകുന്നു അതിനാൽ അകത്ത് ഒന്നും ഇല്ലാത്ത വയറിൻറെ ഉപരിതലത്തിലൂടെ ആണ് കറൻറ് ഒഴുകുന്നത് അതിനാൽ ഈ ആരം a ആണ് പുറത്തെ ആരം b ആകട്ടെ ആമ്പിയറുടെ നിയമപ്രകാരം ഈ വയറിലെ b എന്നാൽ mu 0 ഓവർ 2 പൈ r തവണ I ക്ക് തുല്യമായിരിക്കും കറൻറ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫീൽഡ് b ഇതുപോലെ വൃത്താകൃതിയിലായിരിക്കും അതിനാൽ ഈ ഉള്ളിൽ പൊള്ളയായ ഭാഗത്ത് b പൂജ്യമായിരിക്കും ഈ മേഖലയിൽ മാത്രമാണ് b ഉള്ളത് അതിനാൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജ സാന്ദ്രത 1 by 2 mu 0 മടങ്ങ് mu 0 സ്ക്വയർ I സ്ക്വയർ ഓവർ 4 പൈ സ്ക്വയർ r സ്ക്വയർ ആണ് B0I2πr ഊർജ്ജ സാന്ദ്രത12002I242r20I282r2 എനിക്ക് ഊർജ്ജം ഒരു യൂണിറ്റ് ദൈർഘ്യത്തിൽ സംഭരിക്കപ്പെടുന്നത് കണക്കാക്കണമെങ്കിൽ ഒരു യൂണിറ്റ് ദൈർഘ്യത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം mu 0 I സ്ക്വയർ ഓവർ 8 പൈ സ്ക്വയർ ഇൻ്റഗ്രൽ a to b 2 പൈ r d r ഓവർ r സ്ക്വയറിന് തുല്യമായിരിക്കും അപ്പോൾ ഇത് mu 0 I സ്ക്വയർ ഓവർ 4 പൈ ലോഗ് b by a ആയിരിക്കും യൂണിറ്റ് ദൈർഘ്യത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം 0I282ab2πrdrr20I24πlnba ഈ നിർവചനം 12 L I സ്ക്വയർ എന്നത് ഇത് mu 0 I സ്ക്വയർ ഓവർ 4 പൈ ലോഗ് ba ക്ക് തുല്യമാണ് ഇവിടെ I സ്ക്വയർ പൊതുവായതുകൊണ്ട് ഒഴിവാക്കാം അപ്പോൾ L എനിക്ക് mu 0 ഓവർ 2 പൈ ലോഗ് b a എന്ന് ലഭിക്കും 12LI20I24πlnbaL02πlnba കറന്റ് I വഹിക്കുന്ന ഈ വയറിൽ ഇത് വീണ്ടും അർത്ഥവത്താണോ എന്ന് നോക്കാം പുറത്ത് കറൻറ് തിരിച്ചുവരികയാണ് ഒരു യൂണിറ്റ് ദൈർഘ്യമുള്ള ഫ്ലക്സ് ഞാൻ കാണിക്കുന്ന ഈ ഷേഡുള്ള പ്രദേശത്തായിരിക്കും ഇതായിരിക്കും യൂണിറ്റ് ദൈർഘ്യം ഇതാണ് ഫ്ലക്സ് ഇത് ഇൻ്റഗ്രൽ a to b B ഡോട്ട് d r ന് തുല്യമായിരിക്കും അത് mu 0 ഓവർ 2 പൈ ഇൻ്റഗ്രൽ a to b d r ഓവർ r ആയിരിക്കണം അപ്പോൾ അത് mu 0 ഓവർ 2 പൈ ലോഗ് ba പ്ലസ് I ആകും കൂടാതെ അതെ അത് L I ക്കും തുല്യമാകും ഇതെനിക്ക് L എന്നാൽ mu 0 ഓവർ 2 പൈ ലോഗ് ba ആയി ലഭിക്കുന്നു ഇവ രണ്ടും സമാനമാകുന്നു എങ്ങനെയാണ് ഞാൻ ഊർജ്ജം കണക്കാക്കി അതിൽ നിന്ന് ഇന്ന് ഇൻഡക്സൻസ് കണ്ടുപിടിക്കുന്നത് എന്നും അവയെ തമ്മിൽ എങ്ങനെയാണ് സമാനമാക്കുന്നത് എന്നും നിങ്ങൾ ചിന്തിച്ചേക്കാം അടുത്ത ഉദാഹരണത്തിൽ നമുക്ക് അതിന്റെ പ്രാധാന്യം കാണാവുന്നതാണ് abB dr02πIabdrr02πln ba ILI L02πlnba അടുത്ത ഉദാഹരണത്തിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് കറൻറ് എന്താണെന്ന് കാണാം ഇതിനായി നമ്മൾ കട്ടിയുള്ള ഒരു വയർ എടുക്കും അത് കറന്റ് I വഹിക്കുന്നു ഇവിടെ കറന്റ് വയറിൻറെ അതേ ആരത്തിൽ പൊരുത്തപ്പെടുന്ന ബാഹ്യ കേസിംഗിലൂടെ തിരികെ വരുന്നു ഈ ബാഹ്യ കേസിംഗ് വഴി ആണ് കറന്റ് തിരികെ വരുന്നത് ഈ വയറിനുള്ളിലെ കാന്തികക്ഷേത്രവും അതിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജവും നമുക്ക് കണക്കുകൂട്ടാം വൈദ്യുതധാര വയറിൽ മുഴുവൻ വിതരണം ചെയ്യുന്നുവെന്ന് കരുതുക ഈ ആരം a ആകട്ടെ അപ്പോൾ ആമ്പിയറിന്റെ നിയമം അനുസരിച്ച് വയറിന്റെ അക്ഷത്തിൽ നിന്ന് r അകലെയുള്ള കാന്തികക്ഷേത്രം ഞാൻ കണക്കുകൂട്ടുകയാണെങ്കിൽ നമുക്ക് B തവണ 2 പൈ r എന്നത് mu 0 I ഓവർ പൈ a സ്ക്വയർ ഗുണനം പൈ r സ്ക്വയർ ആയി ലഭിക്കാൻ പോകുന്നു നമുക്ക് ഈ പൈ ഒഴിവാക്കാം അതിനാൽ എനിക്ക് B എന്നാൽ mu 0 ഓവർ 2 പൈ a സ്ക്വയർ തവണ r ആയി ലഭിക്കും അതിനാൽ വയറിനുള്ളിലെ ഫീൽഡ് a വരെ രേഖീയമായി വർദ്ധിക്കുന്നു തുടർന്ന് അത് 0 ആയിത്തീരുന്നു കാരണം പുറത്ത് നെറ്റ് കറന്റ് 0 ആണ് അതിനാൽ ഒരു യൂണിറ്റ് വോള്യത്തിന് സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം 1 ഓവർ 2 mu 0 മടങ്ങ് mu 0 സ്ക്വയർ r സ്ക്വയർ ഓവർ 4 പൈ സ്ക്വയർ a റെയ്സ്സ് ടു 4 ന് തുല്യമായിരിക്കും ഇത് mu 0 ഓവർ 8 പൈ സ്ക്വയർ a റെയ്സ്സ് ടു 4 r സ്ക്വയറിന് തുല്യമാണ് B r ഊർജ്ജംവോള്യo12002r242a4082a4r2 നമുക്ക് ഇപ്പോൾ ഒരു യൂണിറ്റ് ദൈർഘ്യത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം കണക്കുകൂട്ടാം അത് ഇൻ്റഗ്രൽ 0 ടു a mu 0 ഓവർ 8 പൈ സ്ക്വയർ a റെയ്സ്സ് ടു 4 പൈ സ്ക്വയർ a റെയ്സ്സ് ടു 4 മടങ്ങ് r സ്ക്വയർ 2 പൈ r d r ആകുന്നു സംഭരിച്ചിരിക്കുന്ന ഊർജ്ജംനീളം0a082a4r2 2πrdr നമുക്ക് ഇത് കണക്കുകൂട്ടാം ഊർജ്ജം ഇൻ്റഗ്രൽ 0 ടു a mu 0 ഓവർ 8 പൈ സ്ക്വയർ a റെയ്സ്സ് ടു 4 പൈ സ്ക്വയർ a റെയ്സ്സ് ടു 4 മടങ്ങ് r സ്ക്വയർ 2 പൈ r d r I സ്ക്വയറിനു തുല്യമാണ് ഈ 2 പൈ ഇവിടെ ഒഴിവാക്കുന്നു ശേഷം ഇവിടെ 4 പൈ നൽകുന്നു അതിനാൽ ഇത് മ്യു 0 ഓവർ 4 പൈ a റെയ്സ്സ് ടു 4 ഗുണനം a റെയ്സ്സ് ടു 4 ഓവർ 4 I സ്ക്വയർ ആകുന്നു ഇത് 4 കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ അത് mu 0 ഓവർ 16 പൈ I സ്ക്വയറിനു തുല്യമാകുന്നു ഇത് 12 L I സ്ക്വയറിനു തുല്യമായിരിക്കണം ഇവ ഒരുമിച്ച് എനിക്ക് L എന്നാൽ യൂണിറ്റ് ദൈർഘ്യത്തിന് mu 0 ഓവർ 8പൈ എന്ന നൽകുന്നു ഞാൻ ഫ്ലക്സ് ഫോർമുലയിലൂടെ L കണക്കുകൂട്ടുകയാണെങ്കിൽ ഞാൻ r വഴി ഹരിച്ച് മൊത്തം ഫ്ലക്സ് കണക്കാക്കുന്നു

W0a0r2I282a4 2πrdr016πI2 016πI212LI2 or L08πനീളം നമുക്ക് എന്ത് ഉത്തരമാണ് ലഭിക്കുകയെന്ന് നമുക്ക് നോക്കാം കാന്തികക്ഷേത്ര രേഖകൾ ചുറ്റിക്കറങ്ങുന്ന ഈ വയർ എടുക്കുക b നിങ്ങൾ ഇതിനകം തന്നെ ഫൈ ദിശയിൽ ആണെന്ന് കണക്കുകൂട്ടിയിരുന്നു അത് B എന്നാൽ mu 0 ഓവർ 2 പൈ r സ്ക്വയർ I തവണ r നു തുല്യമായിരുന്നു അതിനാൽ എനിക്ക് ഒരു യൂണിറ്റ് ദൈർഘ്യത്തിന് ഫ്ലക്സ് കണക്കാക്കണമെങ്കിൽ ഞാൻ ഈ കനം dr എടുക്കുകയും ഫ്ലക്സ് കണക്കാക്കുകയും ചെയ്യുന്നു അത് mu 0 I ഓവർ 2 പൈ a സ്ക്വയർ ആണ് ഇവിടെ a സ്ക്വയർ ഒഴിവാക്കാം അതിനാൽ ഇത് എനിക്ക് mu 0 ഓവർ 4 പൈ I നൽകുന്നു ഞാൻ ഇത് L എന്നതിന് തുല്യമാക്കുകയാണെങ്കിൽ എനിക്ക് L എന്നാൽ mu 0 ഓവർ 4 pi ലഭിക്കുന്നു mu 0 ഓവർ 8 പൈ എന്ന ഉത്തരം നേരത്തെയുള്ളതാണ് ഇവിടെ mu 0 ഓവർ 4 pi ലഭിക്കുന്നു അതിനാൽ കറന്റ് വിതരണം നടക്കുന്ന സന്ദർഭങ്ങളിൽ ഊർജ്ജ രീതിയിലൂടെയോ ഫ്ലക്സ്I വഴിയോ നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത ഉത്തരങ്ങൾ ലഭിക്കും യഥാർത്ഥത്തിൽ ഈ ഉത്തരം ശരിയല്ല കാരണം ഈ സാഹചര്യത്തിൽ സംഭവിക്കുന്നത് കറന്റ് വിതരണം ചെയ്യുന്നതാണ് അതിനാൽ ഫ്ലക്സ് പലതരം വൈദ്യുത പ്രവാഹങ്ങൾ മൂലമാണ് അപ്പോൾ ഫ്ലക്സ് ലിങ്കേജ് രീതി ഉപയോഗിക്കേണ്ടതാണ് ഓരോ ചെറിയ വൈദ്യുത പ്രവാഹവും കാരണം ഉള്ള ഫ്ലക്സ് നിങ്ങൾ എടുത്ത് അതിനെ I ഉപയോഗിച്ച ഗുണിക്കുന്നു ശേഷം ഉത്തരം ലഭിക്കും എന്നാൽ ഇത് ഊർജ്ജ രീതിയേക്കാൾ സുരക്ഷിതമായി ഉപയോഗിക്കാവുന്നതാണ് അവിടെ ഏത് ഘട്ടത്തിലും b എല്ലാ വൈദ്യുത പ്രവാഹങ്ങൾക്കും നൽകുകയും തുടർന്ന് നിങ്ങൾക്ക് ശരിയുത്തരം ലഭിക്കുകയും ചെയ്യുന്നു